സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുക എന്ന ഈ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഐഐറ്റി കാൻപൂറിൽ നിന്നും രവിചന്ദ്രൻ NPTEL MOOC പ്ളാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇരുപത്തഞ്ചാത്തെ പാഠത്തിലാണ് അതായത് ഈ കോഴ്സിൻറെ നല്ലൊരു ഭാഗം നമ്മൾ പൂർത്തിയാക്കി ഇതാണ് അവസാനത്തെ യൂണിറ്റ് അഞ്ചാമത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ഈ യൂണിറ്റോടുകൂടി ഇംഗ്ലീഷ് നൈപുണ്യത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ അവസാനിപ്പിക്കും ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗത്തിൽ സാധാരണ വരുത്താറുള്ള തെറ്റുകളെക്കുറിച്ചുള്ള അഞ്ചാമത്തെ ഭാഗമാണിത് ഈ അവസാനഭാഗത്ത് നിങ്ങൾക്ക് ചെയ്തു പഠിക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ തരും അതിനുമുമ്പ് സാധാരണ ചെയ്യുന്നതുപോലെ പ്രധാന ഭാഗങ്ങൾ നാം കാണും ഒപ്പം ഉത്തരങ്ങൾ ചർച്ച ചെയ്യും ആദ്യം നിങ്ങളുടെ സ്കോർ നോക്കിയിട്ട് കുറച്ചു പുതിയ ഉദാഹരങ്ങൾ കാണാം കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇരുപത് കുഴപ്പിക്കുന്ന വാക്കുകളും അവയുടെ ശരിയായ ഉപയോഗങ്ങളും മനസിലാക്കി passed out graduated catch എന്നത് ഇന്ത്യക്കാരുടെ ഉപയോഗമാണ് understand എന്നതാണ് ശരി go aheadget ahead on the top ofat the top of call you again ശരിയായ രൂപം call you back in front ofopposite എന്നതാണ് യോജിച്ചത് above ഇവിടെ ഒന്നുകിൽ over എന്നുപയോഗിക്കാം അല്ലെങ്കിൽ on top of എന്നുപയോഗിക്കാം that which എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി lacks in തെറ്റാണ് lacks ആണ് ശരി സ്വന്തമായവയെക്കുറിച്ചു പറയുമ്പോൾ isare എന്നിവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി ആർട്ടിക്കിളിന്റ്നെ ഉയോഗവുമായി ബന്ധപ്പെട്ട് blue pena blue pen എന്നിവ ഇതിൽ a blue pen ശരി അതുപോലെ a honest ആണോ an honest ആണോ an honest ആണ് ശരി കാരണം h ഇവിടെ ഉച്ചരിക്കുന്നില്ല മറ്റാർക്കെങ്കിലും സഹായം വാഗ്ദാനം ചെയ്യുന്നതിന് will canഎന്നിവയുടെ ഉപയോഗം സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ can should എന്നിവയാണ് ഉപയോഗിക്കുനത് അടുത്തത് despite off എന്നതിൻറെ തെറ്റായ ഉപയോഗം ഇവിടെ ഏതാണ് ശരി despite ആണോ in spite of ആണോ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം തുടർന്നും പരിശോധിക്കാനായി സാധാരണ തെറ്റിപ്പോകാറുള്ള 20 വാക്കുകളും പ്രയോഗങ്ങളും തരുകയുണ്ടായി ഈ ഭാഗത്ത് നമ്മൾ അവയുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് കാണും നമുക്ക് ആദ്യം തെറ്റായത് നോക്കാം അതുകഴിഞ്ഞ് അവയുടെ ശരിയായ രൂപം കാണാം ആദ്യത്തേത് ഇതാരുന്നു The audience has decided the fate of the film ഇവിടെ പ്രേക്ഷകർ എന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് അതുകൊണ്ട് ഇത് ബഹുവചന രൂപത്തിൽ ആയിരിക്കണം അപ്പോൾ have decided the fate of the film എന്നതാണ് ശരിയായ ഉപയോഗം association audience committee family government staff department team തുടങ്ങിയ കളക്റ്റിവ് നൌൺസിനെ സാഹചര്യം അനുസരിച്ച് ഏകവചനമായോ ബഹുവചനമായോ കാണാം staff എന്ന വാക്കിൻറെ ഉദാഹരണം നോക്കുക the staff are on vacation എന്നു ഞാൻ പറഞ്ഞാൽ എന്റെ വകുപ്പിലെ എല്ലാ ജീവനക്കാരെയും ആണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് മുപ്പതുപേരാകാം മുന്നൂറുപേരാകാം അവധിയിലുള്ള എല്ലാരെയും ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും പൊതുവിൽ സൂചിപ്പിക്കാനാണ് ബഹുവചന രൂപം ഉപയോഗിക്കുന്നത് പക്ഷേ ജീവനക്കാരിൽ ആരെ എങ്കിലും ഒരാളെ മാത്രം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ she is a new staff എന്ന് പറയും എന്നിട്ടും one of the staffs എന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടെ മനസിലാക്കേണ്ട കാര്യം staff എന്നത് ബഹുവചനമായും ഏകവചനമായും ഉപയോഗിക്കാം എന്നതാണ് രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് നോക്കാം ഇവിടെ തെറ്റായ ഉപയോഗം Bread and butter are tasty എന്നതാണ് കാരണം fish and chips എന്നൊക്കെ പറയുന്നതുപോലെ അവ രണ്ടും ഒരുമിച്ച് ഒറ്റ വസ്തു പോലെ ആണ് കണക്കാക്കുന്നത് bread and butter is my breakfast അതുപോലെ തന്നെ idli and sambar is what I like so much അതായത് ഇവ and ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഒന്നും രണ്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒന്നും ഒന്നും കൂടി ഒന്നായിട്ടു തന്നെയാണ് കണക്കാക്കുന്നത് കാരണം അവ ഒരേ വസ്തുവായിട്ടാണ് തോന്നുന്നത് ഉദാഹരണത്തിന് ഇവിടെ breadഉം butterഉം രണ്ടു വസ്തുക്കളാണെങ്കിലും അവ പ്രഭാതത്തിൽ കഴിക്കുന്ന ഒറ്റ ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇവയെ നിങ്ങൾ ഒറ്റ ഭക്ഷണവസ്തുവായി കണക്കാക്കുമ്പോൾ ശരിയായ രൂപം bread and butter is tasty എന്നാണ് അപ്പോൾ രണ്ടു വസ്തുക്കൾ ഒരേ വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പ്ക്കാന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവ and എന്ന കൺജെങ്ക്ഷൻ ഉപയോഗിച്ച് ഒരുമിച്ചു ചേർത്തശേഷം സിന്ഗുലർ വെർബ് ഉപയോഗിക്കും one hundred meters fifty kilograms എന്നിങ്ങനെയുള്ള മറ്റ് പ്രയോഗങ്ങളും അവ ബഹുവചന രൂപത്തിലാണ് അവസാനിക്കുന്നതെങ്കിലും ഒന്നായിട്ടു തന്നെയാണ് കണക്കാക്കുന്നത് അടുത്ത ഉദാഹരണം നോക്കാം The milk are sour ഇത് തെറ്റായ ഉപയോഗമാണ് The milk is sour എന്നതാണ് ശരി കാരണം water coffee cheese sand information advice എന്നിങ്ങനെയുള്ള അൺകൌണ്ടബിൾ നൌൻസ് വരുമ്പോൾ സിന്ഗുലർ വെർബ് ചേർക്കണം കാരണം നമുക്ക് ഇവയെ പല ഭാഗങ്ങളാക്കി എണ്ണിയെടുക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് വെർബിന്റെ ബഹുവചന രൂപം ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ "Milk" എന്നതിനെ നമുക്ക് എണ്ണാൻ പറ്റില്ല പക്ഷേ ഇത് bottles of milkliters of milk എന്നാ രീതിയിൽ പറയുമ്പോൾ നമുക്ക് വെർബിന്റെ ബഹുവചന രൂപം ഉപയോഗിക്കാം അല്ലതെ പൊതുവായി പറയുമ്പോൾ സിന്ഗുലർ വെർബ് മാത്രമേ പറ്റു ഇതുപോലെ തന്നെയാണ് അടുത്തതു This sack of rice are spoilt ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ കാരണം കൊണ്ടുതന്നെ തെറ്റാണ് This sack of rice is spoilt again ആണ് ശരി Rice എന്നത് wheat പോലെ തന്നെ അൺകൌണ്ടബിൾ നൌൻ ആണ് അതുകൊണ്ട് I eat a rice for lunch എന്നത് തെറ്റാണ് പക്ഷേ I eat rice for lunch എന്ന് പറയുമ്പോൾ അത് ശരിയാകും ഇനി നിങ്ങൾക്ക് അളവ് സൂചിപ്പിക്കണമെങ്കിൽ '5 kilograms of rice' '6 grains of wheat' '4 bowls of rice' എന്നൊക്കെ പറയാം അതായത് നിങ്ങൾ ഒരു ഭക്ഷണ സാധനത്തിന്റെ അളവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ verb ബഹുവചന രൂപത്തിൽ ആകണം അതല്ല നിങ്ങൾ uncountable noun ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വെർബിൻറെ ഏകവചന രൂപം വേണം അടുത്ത ഉദാഹരണം നോക്കാം ഇത് either or അതുപോലെ തന്നെ neither nor എന്നിവയെ സംബന്ധിച്ചാണ് ഇവിടെയും സബ്ജെക്റ്റും വെർബും ചേർന്നുപോകുന്ന തരത്തിലുള്ള ഉപയോഗമാണ് നോക്കേണ്ടത് ആദ്യം തെറ്റായ ഉപയോഗം നോക്കാം Either her mother or my sisters is singing tonight ഇവിടെ ശരിയുത്തരം Either her mother or my sisters are singing tonight എന്നാണ് ഇവിടെ ഏതു സബ്ജെക്റ്റാണോ വെർബിനോട് ചേർന്നു നിൽക്കുന്നത് അത് ഏകവചനമാണോ ബഹുവചനമാണോ എന്നതാണ് ഇവിടെ പരിഗണിക്കുന്നത് അതായത് ഈ ഉദാഹരണത്തിലെ പോലെ ഏകവചനത്തിലും ബഹുവചനത്തിലുമുള്ള രണ്ട് വ്യത്യസ്ത സബ്ജെക്റ്റുകൾ ഉള്ള അവസരത്തിൽ ഏതാണോ കൂടുതൽ അടുത്തു കിടക്കുന്നത് ആ നമ്പർ ആണ് വെർബും സ്വീകരിക്കുന്നത് ഇവിടെ her mother ഏകവചന രൂപവും my sisters ബഹുവചന രൂപവുമാണ് അപ്പോൾ കൂടുതൽ അടുത്തു കിടക്കുന്ന sisters എന്ന സബ്ജെക്റ്റിന്റെ ബഹുവചന രൂപം വെർബും സ്വീകരിക്കും അപ്പോൾ is തെറ്റാണ് are ആണ് ശരി അടുത്തത് നോക്കുക He went along with their uncle to buy a new car ഇത് ഇന്ത്യനിസം ആണ് ഒരു സിന്ഗുലർ സബ്ജെക്റ്റിന് പ്ളുറൽ നൌൺ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ ശരിയായ് ഉപയോഗം He went along with his uncle to buy a new car എന്നാണ് along with this എന്നത് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വെർബിന്റെ രൂപം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോനൌൻ നോക്കിയാൽ അത് ഏതാണ് എന്നു തീരുമാനിക്കുന്നത് അതിനു മുൻപിൽ വരുന്ന നൌണിൻറെ അടിസ്ഥാനത്തിലാണ് എന്നുവച്ചാൽ ഏതു pronoun ആണോ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് അത് അതിനു മുമ്പായി ഉപയോഗിച്ചിരിക്കുന്ന nounമായി ചേർന്നു പോകണം അല്ലാതെ വന്നാൽ noun pronoun disagreement error വരുത്തുകയായിരിക്കും ചെയ്യുക അതുകൊണ്ട് hehis sheher theythem അല്ലെങ്കിൽ theytheir എന്നിങ്ങനെ സാഹചര്യത്തിനനുസരിച്ചു ചേർന്നു പോകണം നമുക്ക് എഴാമാത്തെതിലേക്ക് പോകാം She as well as a friend want to visit the flower exhibition ഇത് തെറ്റായ പ്രയോഗമാണ് She as well as her friend wants to visit the flower exhibition എന്നതാണ് ശരി together with as well as എന്നീ പദപ്രയോഗങ്ങൾ subject ൻറെ എണ്ണത്തിൽ വ്യതാസം ഒന്നും വരുത്തില്ല together with as well as എന്നിവ പരെൻതെറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് അതായത് അവ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന വാക്യങ്ങൾ പോലെ അല്ലെങ്കിൽ അവ എടുത്തു മാറ്റിയാലും വാക്യം പൂർണമാണ് എന്ന രീതിയിൽ ഒരു അധിക വിവരണം കൊടുക്കുന്നതിനുവേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ മെയിൻ സബ്ജെക്റ്റ് "she" ചേർന്നു പോകുന്നത് "wants" എന്നാ വെർബുമായാണ് അല്ലാതെ want എന്നതുമായല്ല അതായത് subject ഏകവചനത്തിൽ ആണെങ്കിൽ ഇവിടെ "she" വെർബും അതിനു ചേർന്ന രൂപം സ്വീകരിക്കണം ഇവിടെ "wants" അതുപോലെ തന്നെ തിരിച്ചും ഇനി ഒരുപക്ഷേ subjct ബഹുവചനത്തിൽ ആണെങ്കിൽ ഉദാഹരണത്തിന് they ഇവിടെ want എന്ൻ ഉപയോഗിക്കും എട്ടാമത്തേത് ഇത് വീണ്ടും അൺകൌണ്ടബിൽ നൌൻസിൻറെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ They have received no informations എന്നത് തെറ്റും They have received no information എന്നത് ശരിയുമാണ് Information എന്ന വാക്ക് uncountable ആണ് അതുകൊണ്ട് അതിന് ബഹുവചനരൂപം ഇല്ല ഇനി നിങ്ങൾക്ക് അതിൻറെ എകവചന രൂപത്തിൽ പറയണമെങ്കിൽ ഉദാഹരണത്തിൽ നല്കിയിരിക്കുന്ന്തുപോലെ She gave an interesting piece of information എന്ന് പറയണം piece of information pieces of information ഇതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് കിട്ടിയ വവരങ്ങളിൽ എത്രെണ്ണം ശരിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ piece of എന്നത് ഉപയോഗിക്കാം ഒൻപത് മുൻപിലത്തെതിന് സമാനമാണെങ്കിലും ഇവിടെ ഒരു പ്രത്യേക വാക്കുണ്ട് politics ഇത് ബഹുവചനമാണ് എന്നു കരുതി ഉപയോഗിച്ചാൽ അത് തെറ്റാണ് കാരണം Politics ഏകവചനമായാണ് കണക്കാക്കുന്നത് politics ethics news alms Physics Mathematics Dynamics എന്നിങ്ങനെയുള്ള nouns ബഹുവചനരൂപത്തിലാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവ ഏകവചനരൂപങ്ങളാണ് അവയുടെ കൂടെ സിന്ഗുലർ വെർബ്സ് ആണ് ഉപയോഗിക്കുന്നതും നമുക്ക് ഇനി പത്താമത്തെതിലേക്ക് പോകാം The new machineries are yet to be installed ഇത് തെറ്റാണ് The new machinery is yet to be installed എന്നതാണ് ശരിയായത് കാരണം machinery എന്ന വാക്കിനു ബഹുവചന രൂപം ഇല്ല മുമ്പ് നമ്മൾ കണ്ട politics Physics എന്നിവ രൂപത്തിൽ ബഹുവചനം ആണെങ്കിലും അവ ഏകാവചനമായാണ് ഉപയോഗിക്കുന്നത് ഇവിടെ furniture പോലെ machineryയും അൺകൌണ്ടബിൾ ആണ് അവയുടെ കൂടെ സിന്ഗുലർ വെർബ്സ് ആണ് ഉപയോഗിക്കുന്നതും പതിനൊന്ന് ഇന്ത്യൻ ഇംഗ്ലീഷിനു പറ്റിയ ഒരു ഉദാഹരണമാണ് He is my cousin brother cousin എന്ന വാക്കിനു ലിംഗഭേദം അല്ലെങ്കിൽ ജൻഡർ ഇല്ല എന്ന ചിന്തയിൽ നമ്മൾ അത് വ്യക്തമാക്കാനായി Cousin brothercousin sister എന്ന് പറയാറുണ്ട് ഇവിടെ ശരിയുത്തരം He is my cousin കാരണം he എന്ന pronoun തന്നെ gender വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് brother എന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ cousin brothercousin sister എന്നത് മറ്റൊരു ഇന്ത്യനിസം ആണ് cousin എന്ന വാക്ക് genderless ആണ് പാശ്ചാത്യർ ലിംഗ വ്യത്യാസം കാണിക്കാൻ പേര് ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അവർ നമ്മളെ ഇങ്ങനെ പരിചയപ്പെടുത്തും my cousin Josephine my cousin John അപ്പോൾ നമുക്ക് മനസിലാകും ഈ cousin ആണാണോ പെണ്ണാണോ എന്ന് എന്നിരുന്നാലും ചിലർ ഈ വ്യത്യാസം കാണിക്കാനായി female cousin male cousin എന്നീ പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് അടുത്ത ഉദാഹരണവും ഇതുപോലെ തന്നെ ആകർഷകമാണ് She has a two thousand rupees note ശരിയായ പ്രയോഗം She has a two thousand rupee note എന്നാണ് രണ്ടായിരം രൂപ എന്നത് ഒരു വലിയ തുകയായിട്ടും എന്തുകൊണ്ട് rupees എന്നുപയോഗിക്കുന്നില്ല എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവിടെ ഇതൊരു നാമവിശേഷണമായാണ് ഉപയോഗിക്കുനത് ഈ നാമവിശേഷണം ഇവിടെ ഒരു സംയുക്തവാക്കാണ് അഥവാ ഒരു കോംമ്ബൌവ്ണ്ട് വേഡാണ് ഹൈഫൻ ഉപയോഗിച്ചാണ് compound word എഴുതുന്നത് ഇവിടെ ഹൈഫൻ ഉപയോഗിച്ച് മൂന്നു വാക്കുകളെ തമ്മിൽ ചേർത്തിരിക്കുന്നു two thousand rupees അപ്പോൾ ഇതൊരു ഏകാവചന രൂപത്തിലാണ് കാരണം ഇത് compound form ഇൽ നോട്ട് എങ്ങനെയുള്ളതാണ് എന്ന് വിശദമാക്കുന്ന ഒരു നാമവിശേഷനമായി വർത്തിക്കുന്നു ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും a three hour drama അതായത് മൂന്നു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാടകം a ten year project അതായത് പത്തു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതി പക്ഷേ ഇത് നമ്മൾ വിപുലപ്പെടുത്തുമ്പോൾ ഇതൊരു ബഹുവചനം ആയി മാറും ten years പക്ഷേ ഇത് ഒരു നാമവിശേഷണത്തിൻറെ സ്ഥാനത്തു വരുമ്പോൾ ഏകവചനമാകും ഇതുപോലെ മറ്റൊരു രസമുള്ള ഉദാഹരണമുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവർ ക്രിക്കറ്റ് കാണുന്നവർ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ ഇതോർത്തിരുന്നാൽ മതി a three day match പക്ഷേ ഇത് യഥാർഥത്തിൽ മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം എന്നാണ് അർത്ഥമാക്കുന്നത് അതുകോണ്ട് ഈ ഉദാഹരണം ഓർത്തിരുന്നാൽ ഇതുപോലെ noun ഒരു compound form ഇൽ നാമവിശേഷണമായി വരുന്ന വാക്യങ്ങൾ തെറ്റാതെ ഉപയോഗിക്കാൻ നിങ്ങൾക്കു കഴിയും അടുത്തത് He leaves this quarter at 800 a എന്ന് പറയുന്നത് തെറ്റാണ് ഇത് പറയാനുള്ള ശരിയായ രീതി He leaves his quarters at 800a ഇതു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തിൻറെയെങ്കിലും നാലിലൊന്നിനെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ശതമാനത്തെ ആണ് "Quarter" എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ താമസ സൌകാര്യത്തെ ആളുകൾ താമസിക്കുന്ന കെട്ടിടത്തെ ഒക്കെയാണ് "quarters" സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ "quarters" എന്നു പറയുമ്പോൾ ഞാൻ എന്റെ വീടിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ quarter എന്ന് പാറയുമ്പോൾ എന്തിൻറെയെങ്കിലും നാലിലൊന്ന് അളവിനെയാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഇവ തമ്മിൽ മാറിപ്പോകാൻ ഇടയാകരുത് അടുത്ത രണ്ടെണ്ണം "one of" എന്നതിൻറെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് Kanpur is one of the highly polluted city in the world ഇത് തെറ്റായ പ്രയോഗമാണ് Kanpur is one of the highly polluted cities in the world എന്നതാണ് ശരി എന്തുകൊണ്ടാണിത് one of" "one of the" എന്നിവയെത്തുടർന്നു വരുന്ന noun എപ്പോഴും പ്ളുറൽ നൌൻ ആയിരിക്കും പലപ്പോഴും ഏഷ്യയിലും സൌത്ത് ഏഷ്യയിലും ഒക്കെയുള്ളവർ പൊതുവായി വരുത്താറുള്ള ഒരു തെറ്റാണ് one off എന്നതിന് ശേഷം സിന്ഗുലർ നൌണിൻറെ ഉപയോഗം പക്ഷേ ഇവിടെ one of എന്നുപയോഗിക്കുന്നത് പല നഗരങ്ങളിൽ ഒന്നിനെ സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് ശരിയായ പ്രയോഗം cities എന്നാണ് അടുത്തത് നോക്കുക അതും ഇതിനു സമാനമാണ് പതിനഞ്ചു One of my students have sung well in this competition എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നത് കാരണം "one of" എന്നത് has എന്ന സിന്ഗുലർ വെർബിനോടാണ് ചേർന്നു പോകുന്നത് അതുകൊണ്ട് ഇതിൻറെ ശരിയായ രൂപം One of my students has sung well in this competition എന്നതാണ് "one of" എന്ന subjct സിന്ഗുലർ ആണ് അതുകൊണ്ട് ഇതൊരു singular verb സ്വീകരിക്കും ഇനി നിങ്ങൾ "some of" "many of" എന്നിവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 'have' ആയിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ some of my students എന്നുപയോഗിച്ചാൽ Some of my students have sung well in the competition എന്നുവരും പതിനാറ് back backside എന്നിവ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് I have planted roses at the back side of my house ഇത് തെറ്റാണ് I have planted roses at the back of my house എന്നതാണു ശരി എന്താണു കാരണം Back side എന്നത് പ്രത്യേകിച്ചും പാശ്ചാത്യ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ പുറകുവശത്തെ അല്ലെങ്കിൽ പിൻഭാഗത്തെ അഥവാ നമ്മൾ പൃഷ്ഠം എന്ന് വിളിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ back എന്നതിൻറെ അർത്ഥം എതിർവശത്തുള്ളഭാഗം അല്ലെങ്ങിൽ മുൻപിൽ നിന്നു അകന്നിരിക്കുന്ന ഭാഗം എന്നൊക്കെയാണ് നിങ്ങൾ ഒരു കഷണം പേപ്പറിൽ എഴുത്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് അതിൻറെ backൽ എഴുതാൻ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒന്നാം പേജിൽ ആണ് എഴുതുന്നതെങ്കിൽ അതിൻറെ രണ്ടാം പേജിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ back side എന്നുപയോഗിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ reverse of the paper എന്നോ the other side of the paper എന്നോ പറയാം പതിനേഴ് Although he is eighty years old he does not wear spectacle ഇവിടെ spectacle എന്നതുകൊണ്ട് കണ്ണട എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതു തെറ്റായ പ്രയോഗമാണ് അതുകൊണ്ട് he is eighty years old he does not wear spectacles എന്നതാണ് ശരിയായ പ്രയോഗം Shoes socks എന്നിവ പോലെ Spectacles ഉം എപ്പോഴും ബഹുവചന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് പതിനെട്ട് spectacleൻറെ പോലെ ഇവിടെ scissor എന്നതിന്റെ പ്രയോഗവും തെറ്റാണ് അതായത് You will need scissor for cutting this material എന്നത് തെറ്റാണ് You will need scissors for cutting this material ആണ് ശരി Shears fetters എന്നിവ പോലെ scissors ഉം എപ്പോഴും ബഹുവചന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് പത്തൊൻപത് I will need new trouser to go to college ഇവിടെ trouser എന്നത് തെറ്റായ പ്രയോഗമാണ് I will need new trousers to go to college എന്നതാണ് ശരി അതായത് stockings pants pyjamas എന്നിവ പോലെ trousersഉം എപ്പോഴും ബഹുവചന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ a pair of trousers a pair of scissors എന്നിങ്ങനെ പറയാം അവസാനത്തേത് Her hairs are black and beautiful ഇവിടെ hairs തെറ്റായ പ്രയോഗമാണ് ഒപ്പം verbഉം തെറ്റായാണ് ഉപയോഗിച്ചിരിക്കുന്നത് Her hair is black and beautiful എന്നതാണ് ശരി സാധാരണ Hair അൺകൌണ്ടബിൾ ആണ് അതുകൊണ്ട് ഇത് ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കില്ല ഈ ഉദാഹരണത്തിലെപോലെ ഇത് ഒരു കൂട്ടമായി എടുക്കുമ്പോൾ ഇതു ഒരു singular verbനോട് ചേർന്നു പോകും പക്ഷേ സാന്ദർഭികമായി I found two long hairs in my soup എന്ന് പറയുമ്പോൾ hairs എന്നത് എണ്ണത്തെ സൂചിപ്പിക്കുകയും അത് ബഹുവചനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു പക്ഷേ സാധാരണ hair എന്നത് ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് you go for haircut അല്ലാതെ hairs cut അല്ല ഇനി നിങ്ങളുടെ ഉത്തരങ്ങൾ പെട്ടന്നൊന്നു പരിശോധിക്കാം സ്കോർ നൽകുക എന്നിട്ട് നിങ്ങളുടെ സ്കോർ നോക്കാം നിങ്ങൾക്ക് 20 ആണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാന്റിംഗ് 18ഓ 19ഓ ആണെങ്കിൽ എക്സലന്റ് 15 മുതൽ 17 വരെ വളരെ നല്ലത് 12 മുതൽ 14 വരെ ആണെങ്കിൽ നല്ലത് 1011 ശരാശരിയിലും മുകളിൽ 8 9 ശരാശരി 6 മുതൽ 8 വരെ ശരാശരിയിലും താഴെ 4 മുതൽ 7 വരെ മോശം 0 മുതൽ 3 വരെ വളരെ മോശം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ സ്കോർ ശരാശരിയിലും താഴെയാണെന്നു കരുതി ആരും നിരാശരാകണ്ട ഇനി നിങ്ങൾ എക്സലന്റ് ആണെന്നു പറഞ്ഞു അമിതമായി സന്തോഷിക്കുകയും വേണ്ട രണ്ടിടത്തും നമുക്ക് ഇനിയും മെച്ചപ്പെടാൻ അവസരമുണ്ട് ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗത്തിൽ സാധാരണ വരുത്താറുള്ള തെറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് നൈപുണ്യത്തെക്കുറിച്ചുള്ള ഈ മോഡ്യുൾ അവസാനിപ്പിക്കുകയാണ് നേറ്റിവ് സ്പിക്കെഴ്സിനെപ്പോല സംസാരിക്കാന് സാധിക്കുന്നില്ലെങ്കിലും ഏറ്റം കുറഞ്ഞത് ഇത്തരം തെറ്റുകൾ കണ്ടെത്തി അവ തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം ഇത്തരം തെറ്റുകൾ തിരുത്താൻ സാധിച്ചാൽ പ്രായോഗികമായി നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് മെച്ചപ്പെടുത്തുകയായിരികും ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നൽകുകയാണ് ഇത്തവണ ഞാൻ ഇവ വിശദീകരിക്കാൻ മെനക്കെടുന്നില്ല പകരം ഞാൻ രണ്ട് ഇന്റർനെറ്റ് സൈറ്റുകളുടെ വിവരങ്ങൾ തരും ഒപ്പം ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള രണ്ടു പുസ്തകങ്ങളിൽ നോക്കി വിശദീകരണം നിങ്ങൾ തന്നെ കണ്ടെത്തുക അപ്പോൾ നിങ്ങൾ കൂടുതൽ നന്നായി ഓർത്തിരിക്കും ഞാൻ ഇവിടെ നൽകിയിട്ടുള്ള ഈ ടേബിളിൻറെ ഇടതുവശത്ത് തെറ്റായ വാക്യങ്ങളും വലതുവശത്ത് അവയുടെ ശരിയായ രൂപവും നൽകിയിട്ടുണ്ട് ആദ്യം ഞാൻ തെറ്റായിട്ടുള്ള വാക്യം വായിക്കും അതുകഴിഞ്ഞ് ശരിയായതും She is taller than me തെറ്റ് She is taller than I ആണ് ശരി I and she are enemies തെറ്റ് She and I are enemies ശരി She enjoyed during vacation തെറ്റ് She enjoyed herself during vacation ശരി One should achieve his goals ശരി എന്നാൽ എപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന പ്രയോഗം One should achieve one's goals Your's sincerely എന്നതാണ് ശരിയായ് രൂപം അതായത് അപ്പോസ്ട്രോഫി ' ഇല്ലാതെ Whom do you think is the culprit എന്ന് ചോദിക്കുന്നത് തെറ്റായ രീതിയാണ് Who do you think is the culprit എന്നതാണ് ശരി നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളെക്കുറിച്ച് She works hardly for her promotion എന്ന് പറയുന്നത് തെറ്റാണ് She works hard for her promotion എന്നതാണ് ശരിയായത് ഇതിന് പെട്ടന്ന് ഒരു വിശദീകരണം തരാം Hardly എന്നു വച്ചാൽ ഒട്ടുമില്ല വളരെ ചുരുക്കമായി കഷ്ടിച്ച് എന്നൊക്കെയാണർത്ഥം അപ്പോൾ she works hardly for her promotion എന്ന് പറഞ്ഞാൽ അവൾ ഒട്ടും ജോലി ചെയ്യുന്നില്ല എന്നാണർത്ഥം ഇത് അവളെക്കുറിച്ച് ഒരു തെറ്റായ വിവരം നൽകലാണ് അവൾ നന്നായി ജോലി ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ She works hard for her promotion എന്ന് തന്നെ പറയണം അടുത്തത് Sudha is worst than her husband എന്ന് പറയുന്നത് തെറ്റാണ് ശരിയായത് Sudha is worse than her husband കാരണം ഇത് കംബാരറ്റിവ് ഡിഗ്രിക്കും സൂപ്പർലെറ്റിവ് ഡിഗ്രിക്കും ഇടക്കു നിൽക്കുന്നു അടുത്തത് Yours affectionate daughter ഇതിൻറെ ശരിയായ രൂപം Your affectionate daughter തെറ്റായ പ്രയോഗം He prefers coffee than tea ശരിയായത് He prefers coffee to tea അടുത്തത് ആർട്ടിക്കിളിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ളതാണ് Himalayas look splendid The Himalayas look splendid കുറച്ചുകൂടി ഉദാഹരങ്ങൾ നമുക്ക് നോക്കാം The gold is a noble metal തെറ്റ് Gold is a noble metal ശരി Ganges is a holy river തെറ്റ് The Ganges is a holy river ശരി He left drinking long ago തെറ്റ് He gave up drinking long ago ശരി ഒരു ആശയം തെറ്റായി അവതരിപ്പിക്കുന്നതിനുള്ള ഉദാഹരണം The teacher asked to Ramu why he is late ഇതിൻറെ ശരിയായ രൂപം The teacher asked Ramu why he was late അതുപോലെ തന്നെ ശാരീരികവേദനയെക്കുറിച്ചു പറയുമ്പോൾ My stomach is paining അല്ലെങ്ങിൽ My head is aching എന്നത് തെറ്റാണ് അത് പറയേണ്ടത് I have pain in my stomach I have a headache എന്നാണ് Columbus invented America ഇവിടെ invented എന്നത് തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിയായത് Columbus discovered America എന്നാണ് കാരണം നിലവിൽ ഉള്ള ഒരു കാര്യത്തെ നിങ്ങൾ discover ചെയ്യുന്നു പക്ഷേ പുതിയൊരു കാര്യം നിങ്ങൾ invent ചെയ്യുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു പരീക്ഷ നടത്തണം You need to take a test in English എന്നാണ് അതിനു പറയേണ്ടത് Please open the tap തെറ്റ് It's not opening Please turn on the tap ശരി Two lakhs are a big amount തെറ്റ് Two lakhs is a big amount ശരി കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം This mango is too sour This mango is very sour എന്നതാണ് ശരിയായ രൂപം I searched the pen everywhere തെറ്റ് I searched for the pen everywhere ശരി She congratulated him for his achievement ഇത് തെറ്റാണ് She congratulated him on his achievement എന്നതാണ് ശരി I am answerable for the boss തെറ്റായ പ്രയോഗം I am answerable to the boss ശരി The man is a social animal തെറ്റായ പ്രയോഗം Man is a social animal ശരി You will need a umbrella തെറ്റായ പ്രയോഗം Articles nouns എന്നിവയുടെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ You will need an umbrella എന്നതാണ് ശരി ആടുത്തത് വീണ്ടും articleൻറെ ഉപയോഗമാണ് അതായത് പുസ്തകങ്ങളും നമുക്ക് പരിചിതമായ ഇതിഹാസങ്ങളും ഒക്കെയായി ബന്ധപ്പെടുത്തി Bible Gita and Koran spread universal love and brotherhood ഇതിൻറെ ശരിയായ് രൂപം The Bible The Gita and The Koran spread universal love and brotherhood എന്നാണ് She is going to an university തെറ്റ് She is going to a university ശരി Many lifes ഇവിടെ lifes ൻറെ പദവിന്യാസം ശ്രദ്ധിക്കണം കാരണം പലരും കരുതുന്നത് lifeൻറെ ബഹുവചനം lifes ആണെന്നാണ് പക്ഷേ അത് lives എന്നാണ് അതുകൊണ്ട് so many lives were lost in the train accident എന്നതാണ് ശരി ഇംഗ്ലീഷിന്റെ ഉപയോഗത്തിൽ സാദാരണയായി വരുത്തുന്ന തെറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം തരാൻ ഞാൻ കുറച്ച് ഉദാഹരങ്ങൾ നൽകുകയായിരുന്നു നിങ്ങളുടെ സോഫ്റ്റ്റ് സ്കിൽസും വ്യക്തിത്വവും അതുപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനവും മെച്ചപ്പെടുത്താനുള്ള ഈ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണിത് അതുകൊണ്ട് നിങ്ങൾ ധാരാളം പരിശീലിക്കണം നന്നായി കാര്യങ്ങൾ നിരീക്ഷിക്കണം നിരീക്ഷണത്തെക്കാളുപരി ഇൻറർനെറ്റിൽ ഉള്ള വെബ്സൈറ്റ്സ് പരിശോധിക്കണം നിരന്തരമായി ഡിക്ഷണറി ഉപയോഗിക്കണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ രണ്ട് വെബ്സൈറ്റ്സിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുമ്പ് രണ്ടു പ്രമുഖ വ്യക്തിത്വങ്ങളുടെ വാക്കുകളെ അടിസ്ഥാനമാക്കി ചില പ്രധാന സന്ദേശങ്ങൾ നല്കാന് ഞാൻ ആഗ്രഹിക്കുകയാണ് മാർക്ക് ട്വിൻ ആണ് ആദ്യത്തെത് അദ്ദേഹം പറയുന്നു "എനിക്കറിയാവുന്ന വ്യാകരണം വായിച്ചു പഠിച്ചതോ നിയമങ്ങൾ മനസിലാക്കിയുള്ളതോ അല്ല മറിച്ച് ഭാഷയുടെ ശ്രവണത്തിലൂടെ നേടിയതാണ് " അദ്ദേഹം ഒരു പ്രസിദ്ധ നോവലിസ്റ്റാണ് വ്യാകരണത്തെക്കുറിച്ചുള്ള എന്റെ അറിവ് ശ്രവണത്തിലൂടെ നേടിയതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ നന്നായി നിരീക്ഷിക്കുകയും അങ്ങനെ ആളുകളുടെ സംഭാഷണം ശ്രവിച്ചു വ്യാകരണവും അതിൻറെ നിയങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്തതാണ് അല്ലാതെ പുസ്തകം വായിച്ചോ നോട്ടുകുറിച്ചോ നിയമങ്ങൾ വായിച്ചോ ഒന്നുമല്ല ഞാൻ വ്യാകരണം പഠിച്ചത് ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കുന്ന ആളുകളെ ശ്രവിച്ചു മാത്രമാണ് അദ്ദേഹം ഇതിലൂടെ നിങ്ങൾക്കു തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് ഒരുതരത്തിൽ വ്യാകരണം മന്സിലാക്കിയിരിക്കെണ്ടത് അത്യാവശ്യംമാണെങ്കിലും മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ വ്യാകരണപുസ്തകങ്ങൾ വായിച്ചു കാണാപ്പാഠം പഠിച്ചു വ്യാകരണ നിയമങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല മറിച്ച് മാർക്ക് ട്വിൻ പറയുന്നതുപോലെ നിലവാരമുള്ള വാർത്താ ചാനലുകളും നല്ല പ്രഭാകരുടെ പ്രഭാഷണങ്ങളും കേൾക്കുക എന്നിട്ട് അവയിൽ നിന്ന് കാര്യങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുക അടുത്തത് റിച്ചാർഡ് ബ്രൻസണിൻറെതാണ് "നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ നടക്കാൻ പഠിക്കുന്നത് " മാർക്ക് ട്വിൻ പറഞ്ഞതിനു സമാനമായി ഇദ്ദേഹവും പറയുന്നു ഒരു നിയമപുസ്തകത്തിൽ കൊടുത്താലെന്നപോലെ അതായത് നിങ്ങൾ ആദ്യം എഴുനേൽക്കണം ഇതുപോലെ പിടിച്ചു നിൽക്കണം എന്നിട്ട് ഇതുപോലെ നടക്കണം എന്നിങ്ങനെ നിയമങ്ങൾ കൃത്യമായി അനുസരിച്ചല്ല നിങ്ങൾ നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ് ചെറുപ്രായത്തിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങിയതെന്ന് ഒന്നോർത്തു നോക്കുക നിങ്ങൾ ഒരു നിയമവും അനുസരിച്ചിട്ടില്ല അത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് "നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ നടക്കാൻ പഠിക്കുന്നത്" എന്ൻ നിങ്ങൾ നടന്നു നോക്കുന്നു പലതവണ വീഴുന്നു എഴുന്നേൽക്കുന്നു വീണ്ടും വീഴുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു അങ്ങനെ നിങ്ങൾ പതുക്കെ നടക്കാൻ പഠിക്കുന്നു അതുകൊണ്ട് ഭാഷാനൈപുണ്യം പ്രതേകിച്ചു ഇംഗ്ലീഷ് നൈപുണ്യം വളർത്തിയെടുക്കാൻ വ്യാകരണം അത്യാവശ്യമാണ് പക്ഷേ ഇത് പുസ്തകം നോക്കി പഠിക്കണമല്ലോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു നിങ്ങൾ വിഷമിച്ചു നിന്നുപോകരുത് പ്രഗത്ഭരായ എഴുത്തുകാരും ചിന്തകന്മാരും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവത്തിലൂടെ അല്ലെങ്ങിൽ ഭാഷയുടെ ഉപയോഗത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കുക തെറ്റുവരും എന്ന് കരുതി ഭയപ്പെടരുത് നിങ്ങൾ എന്തെങ്കിലും തെറ്റു വരുത്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രം സ്വയം തിരുത്തുക ഈ സന്ദേശത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്താം ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് നൈപുണ്യം വളർത്താൻ ഒത്തിരി ഉപകാരപ്പെടും ആദ്യത്തേത് dailywritingtips com കുഴപ്പിക്കുന്ന അല്ലെങ്ങിൽ തെറ്റിപ്പോകാവുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഇതിൽ കാണാം അതുപോലെ നിങ്ങളുടെ എഴുതാനുള്ള കഴിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നും ഇതിൽ നിന്ന് മനസിലാക്കാം നിങ്ങളുടെ ഇമെയിൽ ഐഡി കൊടുത്ത് ഇതിൻറെ വരിക്കാരായാൽ എല്ലാദിവസവും ഇത്തരം വാക്കുകളും ഇംഗ്ലീഷിൽ എഴുതുന്നതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഇംഗ്ലീഷ് നൈപുണ്യം വർധിപ്പിക്കാനുള്ള കാര്യങ്ങളും അവർ നിങ്ങൾക്കു തരും അടുത്തതും ഇതിനു സമാനമാണ് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി പരിശീലിക്കണം അതുകൊണ്ട് ഇതിൻറെ പേരുതന്നെ englishpractice com എന്നാണ് ഞാൻ നൽകിയതിലും അധികമായ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്ങിലും മടുപ്പുതോന്നിയാൽ അല്ലെങ്ങിൽ ഇംഗ്ലീഷ് നൈപുണ്യം വർധിപ്പിക്കാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സൈറ്റ് സന്ദർശിച്ച് നാലോ അഞ്ചോ വാക്കുകളുടെ തെറ്റായ ഉപയോഗത്തെക്കുറിച്ച് മനസിലാക്കുക ഒപ്പം അത് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ വരുത്താതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് ഒരു ശീലമാക്കി മാറ്റുക ഞാൻ നേരത്തെ രണ്ടു പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അത് വാങ്ങാം നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും അത് വാങ്ങി എന്ന് കരുതുന്നു സൌമ്യ ശർമയുടെ Common Errors in English എന്ന പുസ്തകമാണ് നൂറ്റി എൺപത് രൂപയെ ഉള്ളു ഞാൻ പറഞ്ഞതിലധികം ഉദാഹരങ്ങൾ അതിലുണ്ട് നമ്മൾ ഈ മോഡ്യുൾ അവസാനിപ്പിക്കുകയാണ് ഇംഗ്ലീഷ് നൈപുന്യത്തെയും ഇംഗ്ലീഷിന്റെ ഉപയോഗത്തിൽ സാധാരണയായി വരുത്തുന്ന തെറ്റുകളെയും കുറിച്ചു ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ധാരാളം സമയം ചിലവഴിച്ചു എന്നോടൊപ്പം ഈ ഒരാഴ്ച്ച മുഴുവൻ ആയിരുന്നതിന് നിങ്ങൾക്കു ഞാൻ നന്ദി പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു യാത്രയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളു പക്ഷേ ഇതിൻറെ അവസാനം സന്തോഷകരവും ഫലപ്രടവുമായിരിക്കും ഈ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു